10 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സായ ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലെ പ്രഭാഷണ നമ്പർ 3 ലേക്ക് സ്വാഗതം ആദ്യ രണ്ട് പ്രഭാഷണങ്ങളിൽ ബയോ റിയാക്ടറുകൾ എന്തൊക്കെയാണ് അവ എങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു സാധാരണ ഉപയോഗിക്കുന്ന ബയോ റിയാക്ടറുകൾ എന്തൊക്കെയാണ് പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് പ്രധാനമായും ബാച്ച് തുടർച്ചയായതും സെമി ബാച്ചും അല്ലെങ്കിൽ ഫെഡ് ബാച്ച് തുടർന്ന് നമ്മൾ ചില വിശദാംശങ്ങൾ കാണാൻ തുടങ്ങി വൃത്തിയുള്ള ഒരു സ്ലേറ്റ് എങ്ങനെ നേടാമെന്നതാണ് നമ്മൾ ആദ്യം നോക്കിയത് കാരണം അവിടെയുള്ള എല്ലാ ജീവികളെയും നമ്മൾ നശിപ്പിക്കുന്നു നമ്മൾ ഒരു ക്ലീൻ സ്ലേറ്റ് സൃഷ്ടിക്കുന്നു തുടർന്ന് നമുക്ക് താൽപ്പര്യമുള്ള ജീവികളെ ബയോ റിയാക്ടറിൽ നിക്ഷേപിക്കുന്നു അത് നമുക്ക് താൽപ്പര്യമുള്ള ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നു ക്ലീൻ സ്ലേറ്റ് നേടാൻ മൂന്ന് രീതികൾ സാധ്യമാണ് മൂന്ന് പ്രധാന രീതികൾ സാധ്യമാണ് താപനില അടിസ്ഥാനമാക്കിയുള്ളത് അല്ലെങ്കിൽ രാസവസ്തുക്കൾ അടിസ്ഥാനമാക്കിയുള്ളത് രാസ നീരാവി തുടങ്ങിയവ അല്ലെങ്കിൽ വികിരണം അടിസ്ഥാനമാക്കിയുള്ളത് ഗാമാ യുവി അതുപോലുള്ളവ അപ്പോൾ തെർമൽ അണുനശീകരണം താപനില അടിസ്ഥാനമാക്കിയുള്ള വശം വിശദമായി നമ്മൾ കണ്ടു അതിനാൽ അണുനശീകരണ പ്രക്രിയയായ ഒരു എ പ്രിയോറി രൂപകൽപ്പന ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വിശകലനത്തെക്കുറിച്ചും മറ്റും ഉള്ള മുഴുവൻ പോയിന്റും അതാണ് ഇത് ധാരാളം ഉൾക്കാഴ്ചകളും നൽകുന്നു പക്ഷേ ഉചിതമായ പ്രക്രിയകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രായോഗിക വശം ഞാൻ തുടങ്ങട്ടെ ഇതാണ് നമ്മൾ കണ്ടത് താപ അണുനശീകരണം ഉയർന്ന താപനിലയോടുള്ള കോശങ്ങളുടെ പ്രതികരണം നമുക്ക് y ആക്സിസിൽ ഒരു ലോഗ് സ്കെയിലിൽ പ്രാപ്യമായ കോശങ്ങളുടെ ശതമാന സാന്ദ്രതയുണ്ട് x ആക്സിസിൽ സമയമാണ് ഇത് ഒരു ലോഗ് സ്കെയിലിലായിരിക്കുമ്പോൾ ബന്ധം രേഖീയമാണ് കൂടാതെ താപനില കൂടുന്നതിനനുസരിച്ച് കുറയുന്നു നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രതികരണമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത് സാന്ദ്രത കുറയുന്നതിന്റെ നിരക്ക് പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് നേരിട്ട് ആനുപാതികമാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഈ സാഹചര്യം വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഫസ്റ്റ് ഓർഡർ റിലേഷൻഷിപ്പ്ന്റെ പ്രവർത്തനം ഒരു ബാച്ച് ബയോആക്ടറിൽ സംഭവിക്കുന്നു നമ്മൾ അതിനായി ഒരു ബാലൻസ് എഴുതി ഇതാണ് സമവാക്യം xv യുടെ ddt എന്നത് മൈനസ് kd ഗുണം x v ആണ് dxvdt kdxv നമ്മൾ ഇത് സോൾവ് ചെയുകയാണെകിൽ നമുക്ക് ഈ താഴെ കാണിച്ചിരുക്കുന്ന പോലെ കിട്ടുന്നതാണ് അതു നമുക്ക് അവിടെ സമയം തരുന്നു ln xv0xv kdt ജീവനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത xv യിലേക് പോകാൻ ആവശ്യമായ സമയം എന്നത് ഈ താഴെ പറയുന്നതാണ് 303kdxv0xv നമുക്ക് മനസിലാക്കാൻ കഴിയുന്നതുപോലെ ഇത് നാച്ചുറൽ ലോഗാണ് ലോഗ് റ്റു ദി ബേസ് e അതിനെ ലോഗ് റ്റു ദി ബേസ് 10 ആക്കി പരിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് 2 303 എന്ന ഘടകം ഉണ്ട് പക്ഷേ അല്ലാത്തപക്ഷം ഇത് പ്രധാനമായും ഈ സമവാക്യമാണ് ഇവിടെ പ്രധാന കാര്യം ഈ ഡെഡ് കോൺസ്റ്റന്റ് kd അല്ലെങ്കിൽ സ്റ്റെറിലൈസെഷൻ കോൺസ്റ്റന്റ് kd എന്നിവയുടെ സവിശേഷതകളുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധ്യമായ കോശങ്ങളുടെ ഏകാഗ്രത xv0 നിന്ന് xv ലേക്ക് താഴാൻ ആവശ്യമായ സമയം നമുക്കുണ്ട് അതിനാൽ നമ്മൾ എത്തിച്ചേർന്നത് ഇതാണ് എന്നിട്ട് ഒരു ഡെസിമൽ റിഡക്ഷൻ റേറ്റ് എന്ന് വിളിക്കുന്ന ഒരു കാര്യവും നമ്മൾ പരിശോധിച്ചു ഇത് ഒരു നിശ്ചിത താപനിലയിൽ കോശങ്ങളുടെ സാന്ദ്രതയിൽ 10 മടങ്ങ് കുറയുന്നതിന് ആവശ്യമായ സമയമാണ് മടങ്ങ് കുറയ്ക്കുന്നതിന് xv0 xv 10 നു തുല്യ മാവുന്ന xv ആയി മാറ്റിയാൽ മതി xv0xv10 തുടർന്ന് നമുക്ക് ഡെസിമൽ റിഡക്ഷൻ സമയം D എന്നത് 2 303 യെ k d കൊണ്ട് ഹരിച്ചാൽ ലഭിക്കും 303kd ഒരു പ്രോബ്ലം നൽകിയിരുന്നു പ്രാക്ടീസ് പ്രോബ്ലം 1 ഒന്ന് കൂടി പറയാം ഉപയോഗത്തിന് മുമ്പ് ഒരു ബയോ റിയാക്റ്റർ അണുവിമുക്തമാക്കേണ്ടതുണ്ട് ബയോ റിയാക്ടറിലെ സൊല്യൂഷൻ സമാന താപ പ്രതികരണ സ്വഭാവമുള്ള ഒറ്റ കോശങ്ങൾ ഉൾക്കൊള്ളുന്നു 70 ഡിഗ്രി സെൽഷ്യസിൽ കോശങ്ങളുടെ ഏകാഗ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 20 ശതമാനമായി കുറയ്ക്കാൻ 5 മിനിറ്റ് എടുക്കും A ഡെസിമൽ റിഡക്ഷൻ സമയം നിർണ്ണയിക്കുക b അതേ വ്യവസ്ഥകളിൽ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയ്ക്കാൻ എത്ര സമയമെടുക്കും മുമ്പത്തെ പ്രഭാഷണം പ്രഭാഷണ നമ്പർ 2 നമ്മൾ വളരെ നന്നായി പൂർത്തിയാക്കിയപ്പോൾ ഇതായിരുന്നു ചോദ്യം അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട പ്രോബ്ലം ഇത് പരിഹരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുമായിരുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ അടുത്ത പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ പരിഹരിക്കും ആദ്യം ഈ പ്രോബ്ലം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രഭാഷണം ആരംഭിക്കും പ്രോബ്ലം പരിഹാരത്തെക്കുറിച്ച് ആദ്യം ഞാൻ കുറച്ച് സംസാരിക്കാം പ്രോബ്ലം സോൾവിങ് ഒരു ഉയർന്ന തലത്തിലുള്ള കഴിവാണ് ഒരാൾക്ക് നന്നായി പാടാനോ നന്നായി നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗെയിം നന്നായി കളിക്കാനോ അല്ലെങ്കിൽ കഴിവുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ കഴിയും അതുപോലെ പ്രോബ്ലം സോൾവിങ് ഒരു കഴിവാണ് വാസ്തവത്തിൽ ഇത് വൈജ്ഞാനിക ഡൊമെയ്നിലെ ഉയർന്ന തലത്തിലുള്ള കഴിവാണ് സംഗീതത്തിലും നൃത്തത്തിലും മറ്റും സ്വാഭാവിക കഴിവുള്ള ചില ആളുകൾ പോലെ ചില ആളുകൾ സ്വാഭാവികമായും അതിൽ നല്ലവരായിരിക്കും നമുക്ക് സ്വാഭാവിക കഴിവുണ്ടെങ്കിൽ ഈ പ്രാരംഭ ഭാഗം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ന്റെ വിശദാംശങ്ങൾ നമുക്ക് വളരെ ആവശ്യമായി വരില്ല നമ്മൾ ഇതിനകം ഒരു നല്ല തലത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്തും തുടരണമെന്ന് ഞാൻ കരുതുന്നു നിയോഗിക്കുക തരുന്ന പ്രോബ്ലംസ് ചെയ്യുക എന്നിരുന്നാലും എൻറെ അനുഭവത്തിൽ മിക്ക ആളുകൾക്കും അവരുടെ സ്വാഭാവിക നൈപുണ്യമായി പ്രോബ്ലം സോൾവിങ് എന്നത് ഇല്ലായെന്ന് ഞാൻ കണ്ടെത്തി ഈ വൈദഗ്ദ്ധ്യം നേടേണ്ടത് നമുക്ക് ആവശ്യമാണ് കാരണം ഇത് ഈ തൊഴിലിന് ആവശ്യമാണ് നമുക്ക് സ്വാഭാവിക വൈദഗ്ദ്ധ്യം ഇല്ലെങ്കിലും നമ്മൾ പരിശീലിക്കുന്നു നമ്മൾ ഒരു ശ്രമം നടത്തുന്നു തുടർന്ന് ഒരു പ്രത്യേക തലത്തിലേക്ക് പ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്നു സ്ഥിരമായ നല്ല പരിശ്രമത്തിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കോഴ്സിലെ ക്ലോസ്ഡ് എൻഡ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നതിലേക്ക് നമ്മൾ സ്വയം പരിമിതപ്പെടുത്തും ക്ലോസ്ഡ് എൻഡ് പ്രോബ്ലെംസ് പ്രോബ്ലം സെൽവിങ്ങിനു ആവശ്യമായതെല്ലാം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്ഇൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുറിപ്പുകളിലെ മെറ്റീരിയലിലൂടെ അറിയാം ഓപ്പൺ എന്റഡ് പ്രോബ്ലംകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് അതിന് പ്രശ്നത്തിൽ പ്രസ്താവിച്ചതോ അറിയപ്പെടുന്നതോ ആയ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിവരും തുടർന്ന് മറ്റ് ഉറവിടങ്ങൾ സാഹിത്യം മുതലായവയിൽ നിന്ന് വിവരങ്ങൾ നേടുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക വാസ്തവത്തിൽ എന്റെ പതിവ് കോഴ്സുകളിൽ ഒരു സെമസ്റ്റർ ദൈർഘ്യമേറിയതും പരിഹരിക്കാനുള്ള ഓപ്പൺ പ്രോബ്ലം ഞാൻ കൊടുക്കാറുണ്ട് സെമസ്റ്ററിന്റെ മുഴുവൻ ദൈർഘ്യത്തിലും പരിഹരിക്കേണ്ട ഒരു പ്രോബ്ലം ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല പഠന അനുഭവമാണ് അത് ഫലപ്രദമായി ചെയ്യാൻ ഈ ഫോർമാറ്റ് നമ്മളെ അനുവദിക്കുന്നില്ല അതിനാൽ ഈ കോഴ്സിനായി ക്ലോസ്ഡ് പ്രോബ്ലം പരിഹാരമെങ്കിലും നോക്കാം അറിയുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് ചിട്ടയായ രീതിയിൽ വികസിപ്പിക്കുന്നതിനോ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പുസ്തകം നോക്കാൻ ആഗ്രഹിച്ചേക്കാം സ്ട്രാറ്റജിസ് ഫോർ ക്രീയേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്നതാണ് പുസ്തകത്തിന്റെ ശീർഷകം സ്കോട്ട് ഫോഗ്ലർ സ്റ്റീവൻ ഇ ലെബ്ലാങ്ക് എന്നിവരാണ് രചയിതാക്കൾ ഇതൊരു നല്ല പുസ്തകമാണ് പ്രോബ്ലം സോൾവിങ് കുറച്ചുകൂടി അറിയണമെങ്കിൽ ആ പുസ്തകം പരിശോധിക്കാം നമുക്ക് അതിൽ പ്രവേശിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതുപോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു വിദഗ്ദ്ധൻ ആകാനും അതോടൊപ്പം ക്ലോസ്ഡ് എന്റഡ് പ്രോബ്ലം സോൾവിങ് കുറച്ചു നമ്മൾ അടുത്തത്തിലേക്കു പോകാം ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ് വേണ്ടത് എന്നതാണ് എന്താണ് പ്രോബ്ലം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് വ്യക്തമായികഴിഞ്ഞാൽ അത് എഴുതുക തുടർന്ന് പ്രോബ്ലെത്തിലൂടെ പ്രസക്തമായ പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൂടെ എന്താണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്ന ചോദ്യം ചോദിക്കുക ഇവ രണ്ടും വ്യക്തമായി കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിക്കും ആദ്യത്തേതിനെ രണ്ടാമത്തേതുമായി എങ്ങനെ ബന്ധിപ്പിക്കും ഈ പ്രത്യേക പ്രോബ്ലത്തിന്റെ ആവശ്യകതകളെ ഈ പ്രോബ്ലത്തിനുളിൽ തന്നിരിക്കുന്നവരുമായി അല്ലെങ്കിൽ അറിയുന്നവരുമായി എങ്ങനെ ബന്ധിപ്പിക്കും അത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഏതെങ്കിലും അടിസ്ഥാന തത്വങ്ങളുണ്ടോ എന്നും നമ്മൾ ചോദിക്കും വാസ്തവത്തിൽ സൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ 3 മാത്രമേ ഉപയോഗിക്കാൻ പോകുകയുള്ളൂ എന്താണ് വേണ്ടത് എന്താണ് നൽകുന്നത് അല്ലെങ്കിൽ അറിയുന്നത് ആവശ്യങ്ങളും അറിവുകളും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കും ഇത് മൂന്നാം ഭാഗമായി എടുക്കും അങ്ങനെയാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രോബ്ലം പരിഹരിക്കുന്നതിനെക്കുറിച്ച്നമുക്ക് നോക്കാം നമ്മൾ ഇത് ഇതിനകം വായിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡെസിമൽ റിഡക്ഷൻ സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് പാർട്ട് ബിയിൽ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയ്ക്കാൻ എത്ര സമയമെടുക്കും ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ബയോ റിയാക്ടറിലെ സൊല്യൂഷൻ സമാന താപ പ്രതികരണ സ്വഭാവമുള്ള ഒറ്റ കോശങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതയുടെ രേഖയുടെ രേഖീയ ആശ്രിതത്വം നമുക്ക് അനുമാനിക്കാം ക്ഷമിക്കണം പ്രഭാഷണം 70 ഡിഗ്രി സെൽഷ്യസിൽ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 20 ശതമാനമായി കുറയ്ക്കാൻ 5 മിനിറ്റ് എടുക്കുമെന്നും ഇത് പറയുന്നു ഇത് കണ്ടുകഴിഞ്ഞാൽ പരിഹാരത്തെക്കുറിച്ച് നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് വേണ്ടത് നമുക്ക് അതിന്റെ ഒരു പാർട്ട് മറ്റൊന്നായി എടുക്കാം പാർട്ട് A ഡെസിമൽ റിഡക്ഷൻ സമയം അതിനാൽ അത് വ്യക്തമാണ് അതിനാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം എന്താണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നൽകുന്നത് നമുക്കറിയാം ഇത് ഒരൊറ്റ കോശങ്ങളുടെ സസ്പെൻഷനാണ് നമ്മൾ ഇത് നേരത്തെ ചർച്ചചെയ്തു 70 ഡിഗ്രി സെൽഷ്യസിൽ കോശങ്ങളുടെ സാന്ദ്രത 100 ശതമാനത്തിൽ നിന്ന് 20 ശതമാനത്തിലേക്ക് പോകാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 300 സെക്കൻഡ് എടുക്കുമെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 5 മടങ്ങ് കുറയ്ക്കൽ 300 സെക്കൻഡ് എടുക്കും നമ്മൾ ഇത് കാണുന്നു ഞാൻ ഈ 5 മിനിറ്റ് 300 സെക്കൻഡായി പരിവർത്തനം ചെയ്തു ശരി യൂണിറ്റുകളുടെ സ്ഥിരമായ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് സാധാരണയായി നല്ലതാണ് എന്തായാലും ഈ കോഴ്സിന്റെ ആവശ്യങ്ങൾക്കായി നമ്മൾ കൂടുതലും എസ്ഐ യൂണിറ്റുകൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് മുതൽ 300 നൂറ് സെക്കൻഡ് വരെ പരിവർത്തനം ചെയ്തത് ഇത് ഒരു എ പ്രിയോറി ചെയ്യുന്നത് നല്ലതാണ് മൂന്നാമത്തെ പ്രധാന ചോദ്യം നൽകിയിരിക്കുന്നവയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മളിൽ പലരും ഇത് പരിഹരിക്കുമായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ ഡെസിമൽ റിഡക്ഷൻ സമയം നേടി കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് നമ്മൾ അവലോകനം ചെയ്തു അതായത് D2 303kd അതിനാൽ നമുക്ക് k d ആവശ്യമാണ് നമുക്ക് kd ഉണ്ടെങ്കിൽ നമുക്ക് D കണ്ടെത്താനാകും ഇത് ഡെസിമൽ റിഡക്ഷൻ സമയമാണ് ഇത് ഒരു പാർട്ട് A ആവശ്യമാണ് നിങ്ങൾ എങ്ങനെ kd കണ്ടെത്തും അത് ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചുപോയി ഡെസിമൽ റിഡക്ഷൻ സമയത്തിന്റെ വ്യുൽപ്പന്നത്തിന്റെ അടിസ്ഥാനം നോക്കാം അതിനാൽ ഞാൻ പറയട്ടെ ഇത് xv0 നിന്ന് xv ലേക്ക് കോശങ്ങളുടെ സാന്ദ്രത കുറയ്ക്കുന്നതിനും പ്രായോഗികമാക്കുന്നതിനും സമയം നൽകുന്നു അതായത് t2 303kdxv0xv xv0xv എന്നത് എടുക്കുന്ന സമയത്തെ പറ്റി നമുക്ക് ധാരണയുണ്ട് അത് 5 ആണ് xv0xv5 മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 100 ശതമാനം മുതൽ 20 ശതമാനം വരെ 5 മടങ്ങ് കുറവ് ഇത് 5 ആയി മാറുന്നു ശരിയാണ് അതിനാൽ 5 മടങ്ങ് കുറയ്ക്കുന്നതിന് നമുക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 300 സെക്കൻഡ് ആവശ്യമാണ് അതിനാൽ 300 ഈക്വല്സ് 2 303 ബൈ kd ലോഗ് 5 റ്റു ദി ബേസ് 10നു തുല്യമാണ് 303kd5 അതിനാൽ ഇവിടെ kd മാത്രമാണ് വേരിയബിൾ kd നമ്മൾ ഇത് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ സമവാക്യത്തിന്റെ ഇരുവശങ്ങളും വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് അറിയാവുന്ന സമവാക്യത്തിന്റെ ഇരുവശത്തും ഒരേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ വശത്തെ kdയും ഈ വശത്തെ kdയും കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ വശത്തെ 300 ഉം ഈ വശം 300 ഉം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് kd 2 303 ന് 300 ലോഗ് 5 ന് ബേസ് 10 ലേക്ക് തുല്യമാണ് അത് മാറുന്നു 5 37 മുതൽ 10 പവർ മൈനസ് 3 പെർ സെക്കന്റ് 37 ×10 3 s 1 ഈ പ്രത്യേക ഉത്തരം നമ്മൾ സ്ഥിരീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിഹാര പ്രക്രിയയിൽ മാത്രം ഞാൻ എന്റെ ഉത്തരങ്ങൾ മനപൂർവ്വം പരിശോധിച്ചിട്ടില്ല പരീക്ഷാ ചോദ്യങ്ങൾക്കായി ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ അതേസമയം പ്രോബ്ലത്തിന്റെ പരിഹാരങ്ങൾ തന്നിരിക്കുന്ന പ്രാക്ടീസ് പ്രോബ്ലെംസ് എന്നിവയുടെ പ്രകടനത്തിൽ ഞാൻ മനപൂർവ്വം എന്റെ ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല നമ്മൾ ഒരു പിശക് കണ്ടെത്തുകയാണെങ്കിൽ ദയവായി അത് ചൂണ്ടിക്കാണിക്കുക ഇപ്പോൾ നമുക്ക് kd ഉണ്ട് നമുക്ക് ഡെസിമൽ റിഡക്ഷൻ സമയം kd പ്രകാരം 2 303 ആയി കണ്ടെത്താനാകും ഇത് 2 37 10 പവർ മൈനസ് 3 അല്ലെങ്കിൽ 428 9 സെക്കൻഡായി മാറുന്നു ഇത് 60 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 7 2 മിനിറ്റ് ലഭിക്കും D2 303kd 2 9 s7 2 min അതിനാൽ ഈ സാഹചര്യങ്ങളിൽ പ്രായോഗിക സെൽ സാന്ദ്രത 10 മടങ്ങ് കുറയ്ക്കാൻ 7 ഇനി നമുക്ക് ബി പാർട്ട് പരിഗണിക്കാം വീണ്ടും നമ്മൾ അതേ ചോദ്യങ്ങൾ ചോദിക്കും എന്താണ് വേണ്ടത് അതേ സാഹചര്യങ്ങളിൽ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയ്ക്കുന്നതിന് എടുത്ത സമയം എന്താണ് തന്നിട്ടുള്ളത് സിംഗിൾ കോശങ്ങളുടെ സസ്പെൻഷൻ മുമ്പത്തെപ്പോലെ തന്നെ 70 ഡിഗ്രി സെൽഷ്യസിൽ കോശങ്ങളുടെ സാന്ദ്രത 100 ശതമാനത്തിൽ നിന്ന് 20 ശതമാനത്തിലേക്ക് പോകാൻ 300 സെക്കൻഡ് എടുക്കും കൂടാതെ ഒരു പാർട്ട് kdയുടെ മൂല്യം ഡെസിമൽ റിഡക്ഷൻ സമയത്തിന്റെ മൂല്യം എന്നിവ നമ്മൾ കണ്ടെത്തി ഇതാണ് അറിയപ്പെടുന്നത് നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കും എന്താണ് നൽകിയിരിക്കുന്നതെന്ന് അറിയാം xv0 നിന്ന് xv ലേക്ക് പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത കുറയ്ക്കുന്നതിനുള്ള സമയം നമ്മൾ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് 2 303 ബൈ kd ലോഗ് റ്റു ദി ബേസ് 10 ഓഫ് xv0 ബൈ xv ചെയ്യുക 303kdxv0xv പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയുമ്പോൾ ഈ കണ്ടീഷൻ ആണ് നമുക്ക് പ്രോബ്ലം ബി ആവശ്യമുള്ളത് xv0 xv ക്ഷമിക്കണം xvxv0 0 1 ആണെന്ന് നമുക്കറിയാം xvxv0 ഇത് 0 1 എന്നത് ശതമാനമാണ് നമ്മൾ അതിനെ ഭിന്നസംഖ്യയായി പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഇത് 0 1100 ആയി മാറും നമുക്കറിയാമോ അതായത് ശതമാനം എല്ലായ്പ്പോഴും 100 ന് പുറത്താണ് അതിനാൽ ഭിന്നസംഖ്യ ആവശ്യമുള്ളപ്പോൾ അതിനെ 100 കൊണ്ട് ഹരിക്കേണ്ടതുണ്ട് ഇത് 0 001 അല്ലെങ്കിൽ 10 പവർ മൈനസ് 3 ആണ് 00110 3 അതിനാൽ xv 0 xv അതിനെ നമ്മൾ തിരിച്ചാൽ അത് 110 പവർ മൈനസ് 3 അല്ലെങ്കിൽ 10 പവർ 3 ആയിരിക്കും xv0xv110 3103 അതിനാൽ പ്രവർത്തനക്ഷമമായ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 0 1 ശതമാനമായി കുറയ്ക്കുന്നതിന് ആവശ്യമായ സമയം 2 303 ബൈ 5 37 ഇൻ റ്റു 10 പവർ മൈനസ് 3 ലോഗ് റ്റു ദി ബേസ് 10 ഓഫ് 10 പവർ 3 6 സെക്കൻഡ് അല്ലെങ്കിൽ 21 4 മിനിറ്റ് ആയി മാറുന്നു 4 min പ്രോബ്ലം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണിത് ഈ ഘട്ടങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു നമുക്ക് ഈ ഘട്ടങ്ങൾ മനസ്സിലായി നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രഭാഷണം 3 അവസാനിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത പ്രഭാഷണം പ്രഭാഷണം 4 ൽ നമ്മൾ കണ്ടുമുട്ടാം